ഒരൊറ്റ MOS ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് വോൾട്ടേജ് നിയന്ത്രിത കറന്റ് സോഴ്സിന്റെ അടിസ്ഥാന ഘടന നമ്മൾ ഡിറൈവ് ചെയ്തു ഇപ്പോൾ നമ്മൾ ഇത് കൂടുതൽ വിശകലനം ചെയ്യുകയും അത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് കാണുകയും ചെയ്യും ലോഡ് ഡ്രെയിനിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു റെസിസ്റ്ററാണെന്ന് ഞാൻ അനുമാനിക്കും ഇൻപുട്ട് ഗേറ്റിലേക്ക് പ്രയോഗിക്കുന്നു തീർച്ചയായും ഒരു യഥാർത്ഥ ഇൻപുട്ട് സോഴ്സിന് ഒരു നിശ്ചിത സോഴ്സ് റെസിസ്റ്റൻസ് Rs ഉണ്ടായിരിക്കും സോഴ്സ് ടെർമിനലും ഗ്രൌണ്ടും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന R1 റെസിസ്റ്റൻസ് ഉണ്ട് അതിനാൽ സംഭവിക്കുന്നത് ഡ്രെയിൻ കറന്റ് ഉണ്ടെങ്കിലോ R1 വഴി പോകുന്ന ഔട്ട്പുട്ട് കറന്റിലോ R1 ൽ ഉടനീളം ഒരു വോൾട്ടേജ് i0R1 ഉണ്ട് അതും MOS ട്രാൻസിസ്റ്ററിന്റെ സോഴ്സ് വോൾട്ടേജ് കൂടിയാണ് ഗേറ്റിൽ നമുക്ക് ഇൻപുട്ട് വോൾട്ടേജ് vi ഉണ്ട് കാരണം ഗേറ്റിലൂടെ വൈദ്യുത പ്രവാഹമൊന്നുമില്ല കൂടാതെ Rs ഉണ്ട് അതിനാൽ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് vi -ioR1 ആണ് ഇപ്പോൾ i0 യുടെ യഥാർത്ഥ മൂല്യം എന്താണ് ഈ കറന്റ് സോഴ്സ് gmvgs അല്ലെങ്കിൽ gmvi -ioR1 ആണെന്നും അത് തന്നെ ഔട്ട്പുട്ട് കറന്റാണെന്നും നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ ഔട്ട്പുട്ട് കറന്റ് കണ്ടെത്തുന്നതിന് ഞാൻ ചെയ്യേണ്ടത് iogmvi -ioR1 എന്ന് പറഞ്ഞ് ഈ സമവാക്യം എഴുതി io ന് പരിഹരിക്കുക എന്നതാണ് io നായി പരിഹരിക്കുമ്പോൾ എനിക്ക് iogm1gmR1vi ലഭിക്കും ഇപ്പോൾ നമ്മൾ ആഗ്രഹിച്ച ബന്ധം എന്താണ് ioviR1 gmR1 1 ആണെങ്കിൽ ഇവിടെ ഈ എക്സ്പ്രെഷൻ കുറയുന്നുവെന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണാൻ കഴിയും അതിനാൽ നിങ്ങൾ gmR11 തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ സർക്യൂട്ടിലെ ഇൻപുട്ട് വോൾട്ടേജിലേക്കുള്ള ഔട്ട്പുട്ട് കറന്റ് അനുപാതം gm ൽ നിന്ന് സ്വതന്ത്രമാവുകയും ചെയ്യും gm ൽ നിന്ന് സ്വതന്ത്രമാവുകയെന്നാൽ താപനിലയിൽ നിന്ന് സ്വാതന്ത്രമാവുക എന്നതാണ് കാരണം അർദ്ധചാലക സ്വഭാവം gm മുതലായവ താപനിലയെയും ത്രെഷോൾഡ് വോൾട്ടേജ് പോലെയുള്ള MOS ട്രാൻസിസ്റ്ററിന്റെ മറ്റ് ഗുണങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു അതേസമയം റെസിസ്റ്റർ കൃത്യമായി ശരിയാക്കാൻ സാധ്യതയുണ്ട് അതിനാൽ ഇത് ചില റെസിസ്റ്റൻസിനെ കൃത്യമായി ആശ്രയിച്ചിരിക്കുന്നു മാത്രമല്ല ഇത് ട്രാൻസിസ്റ്ററിനെ ആശ്രയിക്കുന്നില്ല ഈ അവസ്ഥ പാലിക്കുന്ന gm ട്രാൻസിസ്റ്റർ നൽകുന്നുവെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ gm G1 G1 ആണ് നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന ട്രാൻസ് കണ്ടക്ടൻസ് ഞാൻ ഈ പദപ്രയോഗം മാറ്റിയെഴുതുകയാണെങ്കിൽ ioviG1 അതിനാൽ അതാണ് നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന ട്രാൻസ് കണ്ടക്ടൻസ് MOS ട്രാൻസിസ്റ്ററിന്റെ ട്രാൻസ് കണ്ടക്ടൻസ് നമ്മൾ നേടാൻ താൽപ്പര്യപ്പെടുന്ന ട്രാൻസ് കണ്ടക്ടൻസിനേക്കാൾ കൂടുതലാണെങ്കിൽ തത്ഫലമായുണ്ടാകുന്ന ട്രാൻസ് കണ്ടക്ടൻസ് നിർണ്ണയിക്കുന്നത് G1 ആണ് ട്രാൻസിസ്റ്ററിന്റെ gm അല്ല അത് കൊണ്ട് തന്നെ വിശകലനം ചെയ്യുന്നത് വളരെ എളുപ്പമാണ് സോഴ്സ് ഫോള്ളോവർ കാര്യത്തിൽ നിങ്ങൾക്ക് ലഭിച്ചതിനോട് ഈ അവസ്ഥ വളരെ സാമ്യമുള്ളതായി നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെ gmRL 1 പൊതുവേ ട്രാൻസ് കണ്ടക്ടൻസ് അല്ലെങ്കിൽ സിസ്റ്റത്തിലെ ചില ഗെയിൻ ഒന്നിൽ കൂടുതൽ ആയിത്തീർന്നാൽ എല്ലാ നെഗറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ടുകളും അനുയോജ്യമായ രീതിയിൽ പെരുമാറുന്നത് നിങ്ങൾ കാണും നിയന്ത്രണ സംവിധാനങ്ങളെക്കുറിച്ച് നിങ്ങളിൽ പരിചയമുള്ളവർക്ക് ഇത് അറിയാം ലൂപ്പ് ഗെയിൻ ഒന്നിൽ കൂടുതൽ ആണെങ്കിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് അനുയോജ്യമായ രീതിയിൽ പ്രവർത്തിക്കുന്നു അതിനാൽ ഈ സർക്യൂട്ട് ലൂപ്പ് ഗെയിൻ ഈ gm സംഭാവന ചെയ്യുന്നു മാത്രമല്ല ഇത് G1 നേക്കാൾ വലുതാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ കണ്ടക്ടൻസ് ഉണ്ടാകും അതിനാൽ ഇപ്പോൾ നമ്മൾക്ക് സർക്യൂട്ട് ഉണ്ട് നമ്മൾ അത് വിശകലനം ചെയ്യുകയും ചെയ്തു ട്രാൻസ് കണ്ടക്ടൻസ് iovigm1gmR11R111R1 gmR1 1 ആണെങ്കിൽ അതാണ് വോൾട്ടേജ് നിയന്ത്രിത കറന്റ് സോഴ്സ്ന്റെ പ്രധാന പാരാമീറ്റർ ഔട്ട്പുട്ട് കറന്റും ഇൻപുട്ട് വോൾട്ടേജും തമ്മിലുള്ള അനുപാതം ഇൻപുട്ട് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ചില പരിമിതികൾ നേരിടാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഈ സാഹചര്യത്തിൽ ഞാൻ ഇതിൽ കൂടുതൽ സമയം ചെലവഴിക്കില്ല ഇതിലേക്ക് നോക്കിയാൽ ഇതിലെ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്താണ് നിങ്ങൾക്ക് അത് കാണാൻ കഴിയും ഗേറ്റിലേക്ക് കറന്റ് ഒഴുകുന്നില്ല അതിനാൽ വോൾടേജ് എന്തായിരുന്നാലും കറന്റ് ഉള്ളിലേക്ക് പോകുന്നില്ല അതിനാൽ വ്യക്തമായി Ri അനന്തമാണ് അതുപോലെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്താണെന്ന് കണ്ടെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതായത് ലോഡ് കണക്റ്റു ചെയ്തിരിക്കുന്നിടത്തെല്ലാം ഈ പോയിന്റിനും ഗ്രൌണ്ടിനും ഇടയിൽ നമുക്ക് അത് ചെയ്യാം ഇത് കണക്കുകൂട്ടുന്നതും വളരെ എളുപ്പമാണ് ഞാൻ ഇൻപുട്ട് വോൾട്ടേജ് പൂജ്യമാക്കി എനിക്ക് ഇവിടെ R1 ഉണ്ട് ഇത് gmvgs ആണ് ഇവിടെ vgs ഉണ്ട് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആ രീതിയിൽ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ എനിക്ക് ഒരു ടെസ്റ്റ് വോൾട്ടേജ് അല്ലെങ്കിൽ ടെസ്റ്റ് കറന്റ് ബന്ധിപ്പിക്കാൻ കഴിയും ഇപ്പോൾ ഒരു ടെസ്റ്റ് വോൾട്ടേജ് കണക്റ്റുചെയ്യാൻ എന്നെ അനുവദിക്കുക ഇപ്പോൾ ഗേറ്റ് പൂജ്യം വോൾട്ടിലോ ഗ്രൌണ്ടിലോ ആണെന്ന് കാണാൻ വളരെ എളുപ്പമാണ് അതിനാൽ ഇത് പൂജ്യമാണ് നിങ്ങൾ ഇവിടെ കിർചോഫിന്റെ Kirchhoff's നിയമം പ്രയോഗിക്കുകയാണെങ്കിൽ ഇത് എന്താണ് ട്രാൻസിസ്റ്ററിന്റെ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് vgs ആണെന്ന് ഞാൻ അനുമാനിക്കാം അതിനാൽ ഇതാണ് വോൾട്ടേജ് vgs അതിനാൽ R1 ലെ കറന്റ് ആ ദിശയിൽ vgs R1 ആണ് ഇവിടെ നമുക്ക് gmvgs ഉണ്ട് അതിനാൽ കിർചോഫിന്റെ കറന്റ് നിയമം ഇവിടെ പ്രയോഗിക്കുമ്പോൾ നമ്മൾക്ക് vgsR1gmvgs0 ലഭിക്കുന്നു അതിനാൽ ഒരേയൊരു പരിഹാരം vgs0 എന്നതാണ് അതിനാൽ ഇവ രണ്ടും പൂജ്യo വോൾട്ടിലാണ് ഇതും പൂജ്യം വോൾട്ടിലാണ് അതിനാൽ ഇവിടെ ഈ കറന്റ് സോഴ്സ് പൂജ്യമാണ് അതിനാൽ ഇത് ചിത്രത്തിൽ നിന്ന് പുറത്തുപോകുന്നു ഇത് ഒരു ഓപ്പൺ സർക്യൂട്ടായി മാറുന്നു ഈ കറന്റും പൂജ്യമാണ് അതിനാൽ VTEST പരിഗണിക്കാതെ കറന്റ് പൂജ്യമായതിനാൽ Rout അനന്തമാണ് ഒരു വോൾട്ടേജ് നിയന്ത്രിത കറന്റ് സോഴ്സിൽ നിന്ന് ആവശ്യമുള്ള സ്വഭാവം എന്തൊക്കെയാണ് അത് വോൾട്ടേജ് നിയന്ത്രിതമായതിനാൽ Ri അനന്തമായിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു കാരണം നിങ്ങൾ ഏത് തരത്തിലുള്ള വോൾട്ടേജ് സോഴ്സ് ഉപയോഗിക്കുന്നതെന്ന് പരിഗണിക്കാതെ തന്നെ അതായത് Rs ന്റെ മൂല്യം എത്ര ഉയർന്നതാണെങ്കിലും Ri അനന്തമാണെങ്കിൽ Rs ന് കുറുകെ വോൾട്ടേജ് ഡ്രോപ്പ് ഇല്ല കൂടാതെ ഈ vi സർക്യൂട്ടിന്റെ ഇൻപുട്ടിലുടനീളം ദൃശ്യമാകുന്നു അതുകൊണ്ടാണ് ഒരു വോൾട്ടേജ് നിയന്ത്രിത ഉപകരണത്തിൽ Ri അനന്തമായിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇത് ഒരു കറന്റ് സോഴ്സ് ആണ് കറന്റ് സോഴ്സിന് ഇൻഫിനിറ്റി ആയ ഔട്ട്പുട്ട് റെസിസ്റ്റൻസുണ്ട് നമ്മുടെ സർക്യൂട്ടിന് ഇൻഫിനിറ്റി ആയ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഉണ്ട് ഇത് ഒരു അനുയോജ്യമായ വോൾട്ടേജ് നിയന്ത്രിത കറന്റ് സോഴ്സിൽ നമ്മൾ ആഗ്രഹിക്കുന്നതിനു തുല്യമാണ് എന്നാൽ തീർച്ചയായും MOS ട്രാൻസിസ്റ്ററിന്റെ മാതൃകയിൽ നിന്ന് നമ്മൾ ചിലത് ഒഴിവാക്കി അത് ലാംഡ ചാനൽ ലെങ്ത് മോഡുലേഷന് അനുയോജ്യമായ പാരാമീറ്റർ ആണ് ഇൻക്രെമെന്റൽ ഔട്ട്പുട്ട് കണ്ടക്ടൻസ് പൂജ്യമാണെന്ന് നമ്മൾ അനുമാനിക്കുന്നു പക്ഷേ ഇത് ശരിക്കും പൂജ്യമല്ല ഇപ്പോൾ കോമൺ സോഴ്സ് ആംപ്ലിഫയറിന്റെയും കോമൺ ഡ്രെയിൻ ആംപ്ലിഫയറിന്റെയോ സോഴ്സ് ഫോളോവറിന്റെയോ ഔട്ട്പുട്ട് കണ്ടക്റ്റൻസിന്റെയോ കാര്യത്തിൽ ഇത് ഫലത്തെ അൽപ്പം മാറ്റി പക്ഷേ ഗുണപരമായ മാറ്റങ്ങളൊന്നും വരുത്തിയില്ല ഈ സാഹചര്യത്തിൽ ഔട്ട്പുട്ട് കണ്ടക്ടൻസ് ഇല്ലെന്ന് നിങ്ങൾ ഊഹിക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് അനന്തമാണെന്ന് നിങ്ങൾ കാണും പക്ഷേ ട്രാൻസിസ്റ്ററിന് കുറച്ച് ഔട്ട്പുട്ട് കണ്ടക്ടൻസ് ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വോൾട്ടേജ് നിയന്ത്രിത കറന്റ് സോഴ്സ്ന്റെ അനന്തതയായിരിക്കില്ല അതിനാൽ ഇത് ഫലത്തിന് ഗുണപരമായ വ്യത്യാസം വരുത്തും ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്ക് വിശകലനം ചെയ്യാനും കാണാനും കഴിയും അതിനാൽ ഈ സാഹചര്യത്തിൽ MOS ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് മാതൃകയാക്കേണ്ടത് പ്രധാനമാണ് വീണ്ടും എനിക്ക് vgs gmvgs ഉള്ള MOS ട്രാൻസിസ്റ്റർ ഉണ്ട് എനിക്ക് അവിടെ റെസിസ്റ്റർ R1 ഉണ്ട് നമുക്ക് MOS ട്രാൻസിസ്റ്റർ ന്റെ gds ഔട്ട്പുട്ട് കണ്ടക്ടൻസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് rds ആവശ്യമാണ് ഇപ്പോൾ വിദ്യാർത്ഥി പതിവായി ചെയ്യുന്ന ഒരു തെറ്റ് അത് ഡ്രെയിനും ഗ്രൌണ്ടും തമ്മിൽ ബന്ധിപ്പിക്കുക എന്നതാണ് ഇത് ഡ്രെയിനും സോഴ്സും തമ്മിൽ ബന്ധിപ്പിക്കണം ഈ സാഹചര്യത്തിൽ സോഴ്സ് അടിസ്ഥാനമല്ല കോമൺ സോഴ്സ് ആംപ്ലിഫയറിന്റെ കാര്യത്തിൽ അത് അടിസ്ഥാനപരമാണ് അത് ഔട്ട്പുട്ടിനും ഗ്രൌണ്ടിനും ഇടയിൽ ദൃശ്യമാകുന്നു അതേസമയം ഈ സാഹചര്യത്തിൽ അത് സംഭവിക്കുന്നില്ല ഇപ്പോൾ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കണ്ടെത്തുന്നതിന് നമുക്ക് ഒരു വോൾട്ടേജ് സോഴ്സ് ബന്ധിപ്പിച്ച് കറന്റ് കണ്ടെത്താനോ കറന്റ് സോഴ്സ് ബന്ധിപ്പിച്ച് വോൾട്ടേജ് കണ്ടെത്താനോ കഴിയും ഈ പ്രത്യേക സാഹചര്യത്തിൽ കറന്റ് സോഴ്സ് ബന്ധിപ്പിച്ച് വോൾട്ടേജ് കണ്ടെത്തുന്നത് എളുപ്പമായി മാറുന്നു നമ്മൾ വളരെക്കാലമായി വോൾട്ടേജ് സോഴ്സ് ഉപയോഗിക്കുന്നു അതിനാൽ ഇപ്പോൾ ഒരു കറന്റ് സോഴ്സ് ബന്ധിപ്പിച്ച് അതിലൂടെ ഉണ്ടാകുന്ന വോൾട്ടേജ് കണ്ടെത്താം ഇപ്പോൾ കറന്റ് സോഴ്സ് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട എളുപ്പമുള്ള കാര്യം നിങ്ങൾക്ക് നിരവധി സീരീസ് പാത്ത് ഉള്ളപ്പോൾ ഒരേ കറന്റ് അവയിലൂടെ ഒഴുകുന്നു അത് ചില ലളിതവൽക്കരണത്തിലേക്ക് നയിക്കും ഇപ്പോൾ എത്ര കറന്റ് ഒഴുകുന്നുവെന്നും നമ്മൾക്കറിയില്ല എന്നാൽ ഇതിലേക്ക് പോകുന്നതെന്തും ഇവിടെ നിന്ന് പുറത്തുവരണം അതിനാൽ ഇവിടെ കറന്റ് ITEST ന് തുല്യമാണെന്ന് കാണാൻ വളരെ എളുപ്പമായിരിക്കണം ആ മുഴുവൻ സർക്യൂട്ടിനു ചുറ്റും കിർചോഫിന്റെ കറന്റ് നിയമം എഴുതുന്നതിലൂടെ കിർചോഫിന്റെ കറൻറ് ഒരു നോഡിൽ മാത്രമല്ല മറ്റ് ചില ഘടകങ്ങളാകാൻ കഴിയുന്ന ഏതെങ്കിലും അടച്ച സർക്യൂട്ട് സാധുതയുള്ളതാണെന്ന് നിങ്ങൾക്കറിയാം കാരണം ചാർജുകൾ സംരക്ഷിക്കപ്പെടുന്നു കൂടാതെ ലോക്കൽ ചാർജ് ശേഖരണം ഉണ്ട് അതിനാൽ അടച്ച പ്രതലത്തിലേക്ക് പോകുന്ന മൊത്തം വൈദ്യുതധാര പൂജ്യത്തിന് തുല്യമായിരിക്കണം അതിനാൽ ഇവിടെ നിലവിലുള്ളത് ITEST ന് തുല്യമാണ് ഇത് കേവലം ഈ കാര്യമാണ് അതിലുടനീളമുള്ള വോൾട്ടേജ് R1 മടങ്ങ് ITEST ആണ് ഗേറ്റിലെ വോൾട്ടേജ് പൂജ്യമാണ് വീണ്ടും ഈ Rs ഗ്രൌണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ ഗേറ്റിൽ കറന്റ് ഒഴുക്കില്ല അതിനാൽ ഈ vgs ITESTR1 ഈ കറന്റ് സോഴ്സ് gmvgs gmR1ITEST ആയിരിക്കും അതാണ് താഴേക്ക് ഒഴുകുന്നത് അതിനാൽ ഇതുപോലെ മുകളിലേക്ക് ഒഴുകുന്നത് gmR1ITEST ആണ് ITEST ആ വഴിയിലൂടെ ഒഴുകുന്നു വ്യക്തമായും gds വഴി കറന്റ് gmR1ITEST ITEST ആയിരിക്കും അതിനാൽ ഇപ്പോൾ നമുക്ക് VTEST എന്ന വോൾട്ടേജ് ഡ്രോപ്പ് നേരെ മുന്നോട്ട് എഴുതാൻ കഴിയും ഇത് rds ലുടനീളമുള്ള വോൾട്ടേജ് ഡ്രോപ്പിനും R1 ൽ ഉടനീളം വോൾട്ടേജ് ഡ്രോപ്പിനും തുല്യമാണ് ഇപ്പോൾ rds ലുടനീളം വോൾട്ടേജ് ഡ്രോപ്പ് ഈ കറന്റ് ഗുണം rds ആണ് അതിനാൽ ഇത് gmR1rdsITEST rdsITEST ആണ് R1 ൽ ഉടനീളമുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ITEST തവണ R1 ആണ് നമ്മൾ ഇതിനകം തന്നെ R1 മടങ്ങ് ITEST കണക്കാക്കിയിട്ടുണ്ട് ഇതെല്ലാംVTEST ന് തുല്യമാണ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്താണ് ഇത് VTESTITEST gmrdsR1rdsR1 ന്റെ അനുപാതമാണ് അതിനാൽ ഇത് നമ്മുടെ വോൾട്ടേജ് നിയന്ത്രിത കറന്റ് സോഴ്സ്ന്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസാണ് ഇപ്പോൾ ഈ എക്സ്പ്രഷനിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കാണാൻ കഴിയും അത് വളരെ വലുതായിരിക്കും കറന്റ് സോഴ്സ്ൽ നിന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ ചെറുതായിരിക്കും അങ്ങനെയാണെങ്കിൽ കറന്റ് സോഴ്സ് പോലെ ഫലപ്രദമാകില്ല അതിനാൽ ഇത് വളരെ വലുതായിരിക്കുമെന്ന് കാണാൻ എളുപ്പമാണ് കാരണം നമ്മൾക്ക് ഈ നമ്പർ ഇവിടെയുണ്ട് gmrdsR1 ഇപ്പോൾ gmrds എന്നത് MOS ട്രാൻസിസ്റ്ററിന്റെ അന്തർലീനമായ നേട്ടമാണ് അതിനാൽ R1 ന്റെ ഈ മൂല്യം MOS ട്രാൻസിസ്റ്ററിന്റെ അന്തർലീനമായ നേട്ടത്താൽ ഗുണിക്കുന്നു ഇത് വളരെ വലിയ സംഖ്യയായിരിക്കാം ഇതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള മറ്റൊരു മാർഗ്ഗം നമ്മുടെ നെഗറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ട് ശരിയായി പ്രവർത്തിക്കുന്നതിന് gmR1 ഒന്നിൽ കൂടുതൽ ആയിരിക്കണം എന്നതാണ് അതിനാൽ ഈ എക്സ്പ്രഷൻ ഏകദേശം ViR1 ലഭിക്കാൻ gmR1 ഒന്നിൽ കൂടുതൽ ആയിരിക്കണമെന്ന് ഇവിടെ കാണാം അതിനാൽ ഇവിടെ ഈ നമ്പർ rds ഒന്നിൽ കൂടുതലായ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കുന്നു അതിനാൽ ഒരൊറ്റ ട്രാൻസിസ്റ്ററിൽ നിങ്ങൾ കാണുന്നതിനേക്കാൾ വളരെ കൂടുതലാണ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഒരൊറ്റ ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് rds ആണ് ഇവിടെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് gmR1rds ആണ് കൂടാതെ ഇവിടെ ചില അധിക പദങ്ങളും rds R1 ഉണ്ട് എന്നാൽ ഇവിടെ ഈ നമ്പർ ഈ ഒന്നിനേക്കാളും കൂടുതലാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഏറ്റവും ന്യായമായ സന്ദർഭങ്ങളിൽ തീർച്ചയായും ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ മേഖലയിലാണെന്ന് കണക്കാക്കപ്പെടുന്നു അതിനാൽ ഇത് നിങ്ങൾക്ക് ഉയർന്ന ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് നൽകുന്നു അതിനാൽ ചുരുക്കത്തിൽ നമ്മുടെ വോൾട്ടേജ് നിയന്ത്രിത കറന്റ് സോഴ്സ് ഇതാണ് വോൾട്ടേജ് നിയന്ത്രിത കറന്റ് സോഴ്സിന്റെ നടപ്പാക്കൽ വീണ്ടും നമ്മൾ സ്മാൾ സിഗ്നൽ ഇൻക്രെമെന്റൽ ചിത്രം നടപ്പിലാക്കി തുടർന്ന് നമ്മൾ ഇത് ചില ബയസ് ക്രമീകരണങ്ങളുമായി സംയോജിപ്പിക്കും നമ്മൾക്ക് ഇവിടെ എന്താണ് ഉള്ളത് ഇൻപുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് കറന്റും തമ്മിലുള്ള അനുപാതം gm1gmR1ആണ് ഇത്1R1 ആയി കുറയുന്നു gmR1 1 ആണെങ്കിൽ വാസ്തവത്തിൽ ഈ gm തിരഞ്ഞെടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാനദണ്ഡമാണ് gmR1 ഒന്നിൽ കൂടുതൽ ആകുക എന്നത് നിങ്ങൾക്ക് R1 ന്റെ ഒരു നിശ്ചിത മൂല്യമുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില ട്രാൻസ് കണ്ടക്റ്റൻസ് G1 gm G എന്നിവയേക്കാൾ വളരെയധികം gm ഉണ്ടാക്കുന്നു Ri ഇവിടെ നോക്കിയാൽ വാസ്തവത്തിൽ അനന്തമാണ് കാരണം ഗേറ്റിലേക്ക് വൈദ്യുത പ്രവാഹമൊന്നും പ്രവഹിക്കുന്നില്ല തീർച്ചയായും നമ്മൾ ഇതിലേക്ക് ബയസ് ക്രമീകരണങ്ങൾ ചേർക്കുമ്പോൾ MOS ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് MOS ട്രാൻസിസ്റ്ററിൻറെ ഔട്ട്പുട്ട് കണ്ടക്ടൻസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് rds ഉപയോഗിച്ച് മാത്രം ഉപയോഗപ്പെടുത്താംgmrdsR1rdsR1 ഏറ്റവും പ്രബലമായ പദം ഇതാണ് അതിനാൽ ഈ Ro എന്ന് പറയുന്നത് rds നേക്കാൾ വളരെ വലുതാണ് മാത്രമല്ല ഇത് R1 നേക്കാൾ വളരെ വലുതാണ് അതിനാൽ ഇത് വളരെ ഉയർന്ന ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് നൽകുന്നു പക്ഷേ അനന്തമല്ല